ഹലോ സെക്യൂർ സിസ്റ്റoസ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിലെ ഈ വീഡിയോ ലക്ച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ യിൽ നമ്മൾ കാണാൻ പോകുന്നത് റൊഹാമ്മർ എന്ന വളരെ അടുത്തു നടന്ന ഒരു ഹാർഡ്വെയർ അറ്റാക്കിനെ കുറിച്ചാണ് ഈ അറ്റാക്ക് ഒരു DRAM ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബിറ്റുകളെ അക്സസ്സ് ചെയ്യാതെ തന്നെ ഫ്ളിപ് ചെയ്യുവാൻ നമ്മെ അനുവദിക്കും ഇത് വളരെ അടുത്തു നടന്ന ഒരു അറ്റാക്ക് ആണ് 2014 ൽ ആണ് ഇത് ആദ്യമായി കണ്ടുപിടിക്കപെട്ടത് അന്നുമുതൽ അപ്പ്ളിക്കേഷനിലും സിസ്റ്റത്തിന്മേലുമുള്ള പല അറ്റാക്കുകൾ നടത്തുന്നതിനായി ഈ രീതി ഉപയോഗിക്കപ്പെടുകയുണ്ടായി കൂടാതെ ഈ അറ്റാക്ക് തടയുന്നതിനായി പല പ്രത്യുപായങ്ങളും സ്ഥാപിക്കുകയുണ്ടായി ഇതിലെ കുറെ സ്ലൈഡ്കൾ പ്രൊഫസർ Onur Mutlu ൻറെ 2017 ലെ ടോക്ക് ൽനിന്ന് കടമെടുത്തതാണ് അപ്പോൾ നമ്മൾ റൊഹാമ്മറിലേക്ക് വിശദമായി കടക്കുന്നതിനുമുന്പ് DRAM നെ കുറിച്ച് നോക്കാം DRAM സിസ്റ്റംസിൽ റാൻഡം അക്സസ്സ് മെമ്മോറിക്കു വേണ്ടിയാണു ഉപയോഗിക്കപ്പെടുന്നത് ഈ DRAM കൽ കാപ്പാസിറ്റിവ് മെമ്മോറികൾ ആണ് അവ ഇതുപോലെ റോസും കോളംസും ഉപയോഗിച്ച് മാട്രിക്സ് ആയി ക്രമീകരിച്ചിരിക്കുന്നു ഒരോ നോടും ഒരു കപ്പാസിറ്റർ ആണ് ഒരു സെല്ലിൽ ഒരു ട്രാന്സിസ്റ്ററും അതിനോടനുബന്ധിച്ചു ഒരു കപ്പാസിറ്ററും അടങ്ങിയിരിക്കുന്നു ഒരു 1 സ്റ്റോർ ചെയ്യുന്നതിന് കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും കപ്പാസിറ്റന്സ് റീഡ് ചെയ്യുന്നതിനായി ട്രാൻസിസ്റ്റർ ഓൺ ആക്കും കപ്പാസിറ്റർ ചാർജ്ഡ് ആണോ ഡിസ്ച്ചാർജ്ഡ് ആണോ എന്നത് അതായതു ഡാറ്റ 0 യോ 1 ഓ എന്നത് ഈ ബിറ്റ് ലൈനിലൂടെ റീഡ് ചെയ്യപ്പെടും കപ്പാസിറ്റർ വലുതായിരിക്കും ക്യാപസിറ്ററിന്റെ ചാർജ് ആണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 യോ 1 ഓ എന്നത് തീരുമാനിക്കുന്നത് കപ്പാസിറ്ററിന്റെ പ്രശനം എന്നത് അതിൻറെ ചാർജ് ഗ്രാജുലായി ലീക് ആയി പോകുമെന്നതാണ് അതുകൊണ്ടു DRAM സെല്ലുകൾ പീരിയോഡിക് ആയി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അതിനായി ഒരു പ്രത്യാക എക്സ്ടെർണൽ സർക്യൂട്ട് ആണ് ഉപയോഗിക്കുന്നത് അത് പീരിയോഡിക്കലായി DRAM ന്റെ ഓരോ സെല്ലിലും ഉള്ള ഡാറ്റ റീറൈറ്റ് ചെയ്യും അതായതു കാപ്പാസിറ്ററിന്റെ ചാർജ് റീസ്റ്റോർ ചെയ്യും അങ്ങനെ ഈ റിഫ്രഷിങ് സംവിധാനം കാപ്പാസിറ്ററിന്റെ ചാർജ് റീസ്റ്റോർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുകയും കുറെ നേരത്തേക്ക് ഡാറ്റ നിലനിർത്തുകയും ചെയ്യുന്നു ഇവിടെ കാണുന്ന ഈ ചിത്രം റിഫ്രഷിങ് എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കുന്നു ഇവിടെ ഈ പ്രേത്യക ഏരിയയിൽ റിഫ്രഷിങ് പീരിയഡിൽ കപ്പാസിറ്റർ റീചാർജ് ചെയ്യപെടുന്നതിനാൽ DRAM നെ അക്സസ്സ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഈ കാണുന്നതാണ് ആക്സസ്സബിൾ റീജിയൻ അതുകൊണ്ടു ഈ പ്രത്യാക ടൈം പീരിയോഡിനുള്ളിലായിരിക്കണം ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ ഓപ്പറേഷൻ നടക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് പോലെ DRAM കൾ റോകളായി ക്രെമീകരിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഒരു പ്രത്യാക മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യേണ്ടിവരുമ്പോളൊക്കെ ആ റൊ മുഴുവനായി ആക്ടിവേറ്റഡ് ആകും എന്നിട്ട് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് റൊ ബഫറിലേക്കു കോപ്പി ചെയ്യപ്പെടും അവിടെ നിന്ന് അത് സിസ്റ്റത്തിന്റെ മറ്റു കമ്പോണന്റ്സ് ആയ കാഷ് മെമ്മറി യിലേക്കോ പ്രൊസസറിലേക്കോ മാറ്റുന്നു ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ചു വലുപ്പം കുറക്കുന്നതിന്റെയും കപ്പാസിറ്റി കൂട്ടുന്നതിന്റെയും ഭാഗമായി മെമ്മറികൾ വളരെ വളരെ കോംപ്ലക്സ് ആയികൊണ്ടിരിക്കുന്നു അതുകൊണ്ടു തന്നെDRAM ൽ കാണുന്ന ഇതുപോലുള്ള റൊകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്കെലിങ്ങിന്റെ പരിണതഫലമായി റോകൾക്കിടയിലുള്ള ഗ്യാപ് കുറഞ്ഞു റോകളിലുള്ള സെൽസ് പ്രവർത്തിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ചാർജി നനുസരിച്ചാണ് എന്നാൽ അവക്കിടയിലുള്ള അകലം കുറയുന്നതുമൂലം റോകൾക്കിടക്ക് ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നു ഈ ചാർജ്ഡ് ബോഡീസ് എത്ര അടുക്കുന്നുവോ അത്രക്കും കൂടുതലായിരിക്കും അവക്കിടയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസും ഈ പ്രതിഭാസമാണ് റൊഹാമ്മർ ഉപയോഗിക്കുന്നത് അപ്പോൾ DRAM ലെ ഒരു പ്രത്യാക റൊ തുടർച്ചയായി അക്സസ്സ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തുള്ള റൊ കളെയും ബാധിക്കാറുണ്ട് ഈ വാൾനറബിലിറ്റി ആണ് റൊഹാമ്മർ ഉപയോഗപ്പെടുത്തുന്നത് അതായത് ഒരു പ്രത്യാക റൊ തുടർച്ചയായി അക്സസ്സ് ചെയ്യുമ്പോൾഅത് തൊട്ടടുത്തുള്ള റൊ കളിലെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിനെ ബാധിക്കും എന്തുകൊണ്ടാണെന്ന് വച്ചാൽതുടർച്ചയായി റൊ വോൾടേജ് ടോഗ്ലിങ് ചെയ്യുമ്പോൾ അത് ചെറുതായി അടുത്തുള്ള റൊകളെയും തുറക്കും തത്ഫലമായി ആ റോകൾ പെട്ടെന്ന് ലീക്ക് ചെയ്യപ്പെടും അതായതു അഡ്ജസൻറ് റോകൾ റിഫ്രഷ് പീരിഡിനേക്കാൾ വളരെ വേഗം ഡിസ്ചാർജ് ആകും തത്ഫലമായി ഈ റൊകളിലെ ചില സെല്ലുകൾ കറപ്റ്റഡ് ആകുകയും അതിലടങ്ങിയിരിക്കുന്ന ഡാറ്റ ടോഗ്ലിൾഡ് അകപ്പെടുകയും ചെയ്യുന്നു ഇത് എങ്ങനെയാണ് റൊഹാമ്മർ അറ്റാക്ക് വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ അനിമേഷൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ് ഇവിടെ അറ്റാക്കർ DRAM ലെ ചില റൊകൾ ടോഗിൾ ചെയ്യുകയും റിഫ്രഷ് പീരിഡിനുള്ളിൽ തുടർച്ചയായി അക്സസ്സ് ചെയ്യുകയും ചെയ്യുന്നു ഇത് അവയിലടങ്ങിയിരിക്കുന്ന ഡാറ്റയെ ടോഗിൾഡ് ആക്കുന്നു ഈ പച്ചയും ചുവന്നതുമായ ബ്ലോക്കുകൾ ഇതിനെയാണിവിടെ പ്രധിനിധാനം ചെയ്യുന്നത്അറ്റാക്കർ അനുവദനീയമായ രീതിയിൽ അക്സസ്സ് ചെയ്യുന്നതാണ് ഈ പച്ച ബ്ലോക്കുകൾ കാണിക്കുന്നത് DRAM ൽ റൊഹാമ്മറിംഗ് മൂലമുണ്ടാകുന്ന വീഴ്ചയുടെ പ്രഭാവം ആണ് ചുവന്ന ബ്ലോക്കുകൾ കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടം എന്താണെന്നു വച്ചാല് വളരെ ഹൈ റേറ്റിൽ മെമ്മറി ലൊക്കേഷൻ അക്സസ്സ് ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് അഡ്ജസെന്റ് റൊകൾ ടോഗിൾ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇവിടെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ ഇന്റഗ്രിറ്റി മാറ്റം വരുത്തി എന്നതാണ് ഈ അറ്റാക്ക് ക്രിട്ടിക്കൽ അകാൻ കാരണം ഉദാഹരണത്തിന് ഇവിടെ ഈ റോയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫിക് ഡാറ്റ ആണ് പ്രസൻറ് ആയിരിക്കുന്നതെന്നു വിചാരിക്കു അതായതു കേർണൽ മാത്രം അക്സസ്സ് ചെയ്യുന്ന പേജ് ടേബിൾ ഇപ്പോൾ റൊഹാമ്മറിംഗ് ഉപയോഗിച്ച് അഡ്ജസന്റ് റോകളിൽ എറർ വരുത്തി പേജ് ടേബിൾ കണ്ടന്റ്സിനെ മാറ്റം വരുത്താൻ കഴിയുന്നതാണ് അതായതു കേർണലിന് മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന പേജിനെ മാറ്റം വരുത്തുക എന്നത് ഒരു യൂസർ പ്രോഗ്രാമിന് കൂടി ഇവിടെ സാധിക്കുന്നു ഒരു മാതൃകാപരമായ റൊഹാമ്മേർഡ് പ്രോഗ്രാം ഏതാണ്ട് ഇതുപോലിരിക്കും ഈ സോഴ്സ് കോഡ് എവിടെനിന്നാണോ എടുത്തിരിക്കുന്നത് അവിടെ കാണാവുന്നതാണ് ഇത് വളരെ ലളിതമാണ് ഇതിൽ ഒരു ചെറിയ ലൂപ്ആണുള്ളത് അത് DRAM ലെ ഒരു പ്രത്യാക റോയെ ലക്ഷ്യം വക്കുന്നു അതുകൊണ്ടു ഈ പ്രത്യാക കേസിൽ നമ്മൾ ഇവിടെ ഈ റൊ X നെയും Y യേയും ലക്ഷ്യമാക്കി മെമ്മറി ആക്സസ്സുകൾ നടത്തുന്നു ഈ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്സിനെ ഇവിടെ കാണിച്ചിരിക്കുന്ന eax റെജിസ്റ്ററിലേക്കും ebx റെജിസ്റ്ററിലേക്കും ലോഡ് ചെയ്യുന്നു x 86 സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന CLFLSH ഇൻസ്ട്രക്ഷൻ ആണ് X നും Y യ്കും അനുസൃതമായ ഡാറ്റ കാഷ് മെമ്മറിയിൽ നിന്ന് ഫ്ലഷ് ചെയ്യാനുപയോഗിക്കുന്നത് ഇത് ഈ ലോഡ് ഇൻസ്ട്രക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും DRAM അക്സസ്സ് ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നു ലോഡ് ഇൻസ്ട്രക്ഷന് കാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ ലഭിക്കില്ല DRAM ലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ സീരിയലൈസ് ചെയ്യുന്നതിനാണ് ഈ MFENCE ഇൻസ്ട്രക്ഷൻ ഈ ചെറിയ സെറ്റ് ഇൻസ്ട്രക്ഷനുകൾ ഹൈ റേറ്റിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് DRAM റോകളിൽ തുടർച്ചയായ അക്സസ്സ് സൃഷ്ടിക്കുന്നു അപ്പോൾ നമ്മൾ മുൻപത്തെ അനിമേഷനിൽ കണ്ടതുപോലെ ചെയ്ത് DRAM ന്റെ റിഫ്രഷ് പീരിയഡിനേക്കാളും വേഗത്തിൽ ഡാറ്റ റേറ്റ് ഉപയോഗിച്ച് DRAM അഡ്ജസൻറ് റോകളിലെ ചാർജ് നഷ്ടപ്പെടുത്തി എറർ സൃഷ്ടിക്കുന്നു ഈ വാൾനറബിലിറ്റി ഉപയോഗിച്ചാണ് പല പല വ്യത്യസ്തമായ അറ്റാക്കുകളും നടത്തുന്നത് ഉദാഹരണത്തിന് ഈ അറ്റാക്കുകൾ ജാവ സ്ക്രിപ്റ്റിൽ എഴുതി വെബ് ആപ്പ്ളിക്കേഷന് റൂട്ട് പ്രീവിലേജ് നേടിയെടുക്കുന്നു രംപേജ് അറ്റാക്കും ഗ്ലിട്ച് അറ്റാക്കും ആണ് മറ്റുള്ളവ ഇവയെ കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ റൊഹാമ്മറിൻറെ കണ്ടുപിടുത്തത്തിന് ശേഷം ഇവിടെ കുറെയേറെ സൊല്യൂഷനുകൾ പ്രൊപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സൊല്യൂഷനുകൾ നമുക്ക് പല ലെവലുകളിൽ ചെയ്യാം ഹാർഡ്വെയർ ലെവലിൽ റൊഹാമ്മറിൻറെ പ്രഭാവം വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്ന വിധത്തിൽ ആണ് ഇപ്പോൾ DRAM കൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് കൂടാതെ റിഫ്രഷ് റേറ്റ് കൂട്ടുക പര്യാപ്തമായ എറർ കറക്ഷൻ രീതികൾ തുടങ്ങിയവ ഹാർഡ്വെയറിൽ ഉൾകൊള്ളിച്ചുകൊണ്ടാണ് ഈ സൊല്യൂഷൻസ് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലതന്നെ DRAM പാർട്ടീഷൻ ചെയ്യുകDRAM ൽ സെൻസിറ്റീവ് ആയതും അല്ലാത്തതുമായ ഡാറ്റ കൾ അടുത്തടുത്ത് വാക്കാതിരിക്കുക തുടങ്ങിയ ടെക്നിക്കുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടെന്നു ഉറപ്പാക്കുക മറ്റു ടെക്നിക്കുകളായ പെർഫോർമൻസ് ആധുനിക പ്രൊസസ്സറിൽ ഉള്ള കൌണ്ടെർസ് തുടങ്ങിയവ ഉപയോഗിച്ച് DRAM ന്റെ ഉപയോഗത്തിലെ പാറ്റേൺ തിരിച്ചറിയുക എന്നതും റൊഹാമ്മർ പോലുള്ള അറ്റാക്കിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കാം ഈ അറ്റാക്കിന്റെ കോഡ് നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാം